എല്ലാവർക്കും മൃഗ കോശങ്ങളുടെ സെൽ കൾച്ചറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ ഈ വിഷയത്തെ പരിചയപ്പെടുത്തി അതുകൂടാതെ കൾച്ചർ ചെയ്യപ്പെട്ട സെല്ലുകളുടെ ബയോളജിയെ പറ്റിയും സംസാരിച്ചു സെല്ലുകളെ കൾച്ചർ ചെയ്യുന്നതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരു ടിഷ്യുവിനെ പുറത്തേക്കെടുത്തു അവയെ സിംഗിൾ സസ്പെൻഷൻ ഉണ്ടാക്കി ഒരു ഡിഷിൽ വളർത്തുകയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു നമ്മളാദ്യം പരിഗണിക്കേണ്ടത് ഈ സെല്ലുകളുടെ ഓക്സിജൻ ആവശ്യകതയാണ് അതായത് ശരിയായ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷം ഉറപ്പുവരുത്തണം അതുകൂടാതെ ഡിഷിൽ വളരുന്ന സെല്ലുകൾ മൃഗ കോശങ്ങളിൽ ഉള്ള എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്കളെ അനുകരിക്കേണ്ടത്തിന്റെ ആവശ്യകതയും നമ്മൾ പറഞ്ഞിരുന്നു അതുകൂടാതെ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്സുകളുടെ പ്രാധാന്യം ഒരു സിമെന്റിങ് മെറ്റീരിയൽ എന്ന നിലയിൽ അവർ സെല്ലുകളുടെ വിധി നിർണയിക്കുന്നതിൽ എത്രത്തോളം പങ്കുവയ്ക്കുന്നു എന്നും പറഞ്ഞിരുന്നു അതിനുശേഷം സെല്ലുകളുടെ പറ്റി ചേർന്നിരിക്കുന്ന സവിശേഷതയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അധെറിങ് സെല്ലുകൾ നോൺ അധെറിങ് സെല്ലുകൾ എന്നിങ്ങനെ അവയെ തരംതിരിച്ചു നമ്മൾ ഏതുതരം സെല്ലുകളാണ് കൾച്ചർ ചെയ്യുന്നതെന്ന് നോക്കണം പിന്നീട് സെൽ സൈക്കിൾ പുരോഗതിയെ പറ്റിയും സംസാരിച്ചിരുന്നു അതായത് നമ്മൾ കുറച്ച് കാലത്തേക്ക് മാത്രം ഡിവിഷൻ നടക്കുന്ന സെല്ലുകളെയാണോ അല്ലെങ്കിൽ മുഴുവനായി ഡിഫറെൻഷിയേറ്റഡ് ആയ സെല്ലുകളെയാണോ കൈകാര്യം ചെയ്യുന്നത് അത് കൂടാതെ നമ്മൾ കുറച്ചു പദ പ്രയോഗങ്ങളും പരിചയപ്പെടുത്തി സെൽ സൈക്കിൾ സെൽ ഡിവിഷനിലേക്ക് നയിക്കുന്നു പിന്നീട് ഡിഫറെൻഷിയേറ്റഡ് ആയി മാറുന്നു അതിനു ശേഷം അതിനതിന്റെ പ്രവർത്തി സ്ഥിരമായി നഷ്ടപെടുകയാണെങ്കിൽ അതിനെ ഡി അഡാപ്റ്റഡ് എന്ന് പറയും അതായതു ഡി അഡാപ്റ്റേഷനിൽ സെല്ലുകൾ അവയുടെ നിർദിഷ്ട പ്രവൃത്തി നഷ്ടപെടുത്തുകയാണ് ഇത് തിരിച്ചു കൊണ്ടുവരാവുന്ന പ്രക്രിയയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങൾ ഉണ്ട് ഞാൻ നിങ്ങളോട് ഒരു സെൽ ലൈനിന് എത്ര പാസ്സേജുകളുണ്ടെന്നു മനസിലാക്കിവെക്കാൻ പറഞ്ഞിരുന്നു ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സെൽ ലൈൻ ഇമ്മോർട്ടൽ ആണെന്ന് വിചാരിക്കുക അതായത് അതിന് n സൈക്കിളുകളിലൂടെ കടന്നു പോകാം എന്ന് വിചാരിക്കുക എങ്കിൽ ആദ്യം ഉയരുന്ന ചോദ്യം എന്തെന്നാൽ പ്രാക്ടിക്കലായി ഒരു സെല്ലിനെ എത്ര ഡിവിഷൻ വരെ ഉപയോഗിക്കാം ഓരോ തവണയും ഒരു സെൽ പാസ്സേജ്ജിലൂടെ കടന്നു പോകുമ്പോൾ അത് അതിൻറെ ലൈഫ് സൈക്കിളിലൂടെ മൊത്തം കടന്നു പോകേണ്ടി വരുന്നു അത് അതിൻറെ ടീലോമിയറിൻറെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നുണ്ട് അവസാനം അതിൻറെ പ്രവർത്തനരീതിയിൽ മാറ്റം വരുന്നു എന്നാൽ ഇവയെല്ലാം നിങ്ങൾ എങ്ങനെയാണ് സെല്ലുകളെ കൈകാര്യം ചെയ്യുന്നതെന്നും എന്ത് പ്രവർത്തിക്കു വേണ്ടിയാണ് അവയെ വളർത്തുന്നതെന്നും അനുസരിച്ചിരിക്കും നിങ്ങളതിനെ ഒരു സെൻസർ ആയി ഉപയോഗിക്കാനാണോ അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിൽ നടക്കുന്ന എന്തെങ്കിലും പ്രവർത്തി മനസ്സിലാക്കാനാണോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഹൈബ്രിഡോമ ടെക്നോളജി അതായത് ആൻറിബോഡി പ്രൊഡക്ഷനോ മറ്റോ വേണ്ടി ആണോ അതോ ഏതെങ്കിലും xyz കോമ്പൌണ്ടുകൾ ഉണ്ടാക്കാനാണോ ഉപയോഗിക്കുന്നത് എന്നതനുസരിച്ചിരിക്കുന്നു നിങ്ങൾ സെൽ ടൈപ്പുകൾ കൈകാര്യം ചെയ്യുന്ന രീതി അതിനാൽ ഈ രണ്ടാമത്തെ ആഴ്ചയിൽ ഇതിന് മുൻപ് പറഞ്ഞിരുന്ന വിഷയങ്ങളെപ്പറ്റിയെല്ലാം ഒന്ന് ചുരുക്കി പറയാം അതുകൂടാതെ ഇതിൻറെ മറ്റു ചില വശങ്ങളും നമുക്കു നോക്കാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിലെ ആദ്യത്തെ ക്ലാസ്സിലാണ് W2L 1 കൾച്ചർ സെല്ലുകളുടെ ബയോളജിയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ അവയുടെ ഓക്സിജൻ കാർബൺഡയോക്സൈഡ് പരിസ്ഥിതിയെ പറ്റിയും എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്കളെ പറ്റിയും അധെറിങ് നോൺ അധെറിങ് സെല്ലുകളെ പറ്റിയും സെൽ സൈക്കിൾ പുരോഗതിയെ പറ്റിയും മുൻപ് സംസാരിച്ചിരുന്നു നമ്മൾ മൈറ്റോസിസ് G 1 ഘട്ടം G 2 ഘട്ടം അത് കൂടാതെ സെൽ ഡിവിഷൻ ഡിഫറെൻഷിയേഷൻ ഡിഡിഫറെൻഷിയേഷൻ ഡിഅഡാപ്റ്റേഷൻ ഇവയെയെല്ലാം പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇതുകൂടാതെ സെല്ലുകളുടെ ബയോളജിയെ പറ്റി പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മൾ ഇപ്പോൾ സെല്ലുകളുടെ PHനെ പറ്റിയാണ് പറയുന്നത് അതായത് ഏത് PH നാണ് സെല്ലുകൾ അഡാപ്റ്റഡ് ആയതെന്ന് സാധാരണയായി ശരീരത്തിൻറെ PH എന്നത് 7 ആണ് എന്നാൽ നിങ്ങൾ സെല്ലുകളെ വളർത്തുമ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശരീരത്തിൽ സെല്ലുകൾ വളരുമ്പോൾ അതിലൂടെ ഒഴുകുന്ന രക്തവും മറ്റ് എക്സ്ട്രാ സെല്ലുലാർ പ്രോട്ടീനുകളും ഉണ്ട് ഈ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് സൊലൂഷൻ ആ സ്ഥലത്ത് കൂടെ നിരന്തരമായ ഒഴുക്കിക്കൊണ്ട് അവിടത്തെ PH 7 തന്നെയായി നിലനിർത്തുന്നു സെൽ കൾച്ചറിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഭാവനയിലൂടെ കണ്ട് നോക്കൂ അതായത് ഇവിടെ നമുക്ക് ഒരു ഡിഷ് ഉണ്ട് അതിൽ നമുക്ക് കുറെ സെല്ലുകളും ഉണ്ട് അവ പകുതി ചന്ദ്രൻറെ രൂപത്തോളം വളർന്നുകഴിഞ്ഞു ഇവയാണ് ആ സെല്ലുകൾ പിന്നെ ഇവയാണ് സെല്ലുകൾ വളരുന്ന മീഡിയം ഇനി എങ്ങനെയാണ് നമ്മൾ ഈ മീഡിയത്തിൻറെ PH കൈകാര്യം ചെയ്യാൻ പോകുന്നത് അതുകൂടാതെ ഏതുതരം PH ആണ് ആ സെല്ലുകൾക്ക് ആവശ്യം എന്ന് എങ്ങനെയാണ് മനസിലാക്കുക ഉദാഹരണത്തിന് നമുക്ക് ആമാശയത്തിനകത്തുള്ള സെല്ലുകളെ കൾച്ചർ ചെയ്യണം എന്ന് വിചാരിക്കുക ഫിസിയോളജിയിലെ അറിവ് വെച്ച് അവ വളരെ അസിഡികായ PH ഇൽ ദഹനം നടത്തുന്നവയാണ് എന്ന് നമുക്കറിയാം പരിറ്റൽ സെല്ലുകൾ ചീഫ് സെല്ലുകൾ എന്നിവയാണ് അവിടെ ആസിഡ് ഉണ്ടാക്കുന്നത് അതിനാൽ തന്നെ ആമാശയത്തിന്റെ പ്രവർത്തനം അസിഡിക് പരിസ്ഥിതിയിലാണ് നടക്കുന്നത് അതായത് അത് ഏഴിനു താഴെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പരിറ്റൽ സെല്ലുകൾ ചീഫ് സെല്ലുകൾ എന്നിവയ്ക്കും മറ്റുപല സെല്ലുകൾക്കും കുറഞ്ഞ PH ഇൽ ഒരു പ്രത്യേക കാലത്തേക്ക് നിലനിൽക്കാൻ സാധിക്കുംഅത് കൂടാതെ ആമാശയത്തിൽ ആസിഡ് നിറഞ്ഞിരിക്കുന്നതല്ല മറിച് ഹൈഡ്രജൻ അയോണും ക്ലോറിൻ അയോണും കൂടി ചേർന്ന് ഉണ്ടാകുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ എല്ലാ സെല്ലുകളും ഈ ആസിഡ് ഉപയോഗിച്ച് ഭക്ഷണപദാർത്ഥങ്ങളെ ദഹിപ്പിക്കുകയും അതിനു ശേഷം അസിഡിനെ വലിച്ചെടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല കുറച്ചു നേരത്തേക്ക് ആമാശയത്തിൽ ഒരു PH സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ PH സ്കെയിൽ പോലെയുള്ള ഒന്നുണ്ട് അതിനാൽ ഇത് 7 ഉം ഇത് 7നു മുകളിലുമാണ് ഇവ 7 ൽ താഴെയാണ് ഉദാഹരണത്തിന് 7 ൽ താഴെ കാണുക അതിനാൽനമ്മൾ കാണുന്നത് തീർച്ചയായും അതിൻറെ അസിഡിക് വശമാണ് അതായത് ദഹനത്തിൻറെ സമയത്ത് ഈ പരിസ്ഥിതി നിർദിഷ്ട സമയത്തേക്ക് ഇങ്ങനെയൊക്കെയായിരിക്കും അപ്പോൾ ഇതെല്ലാമാണ് സംഭവിക്കുന്നത് ഇതിൽനിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് എന്തെന്നാൽ ആമാശയത്തിനകത്ത് വളരെ താന്ന PH കുറച്ചുനേരത്തേക്ക് ഉണ്ടാകും അതിനെ അവിടത്തെ സെല്ലുകൾക്ക് അതിജീവിക്കാനാകും എന്നാൽ അത്തരത്തിലൊരു ആക്ടിവിറ്റി തിരിച്ചുകൊണ്ടുവരാൻ ആയിട്ട് നമ്മൾ അതേ സാഹചര്യം തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു നമ്മൾ ഇത്തരത്തിലുള്ള സെല്ലുകൾ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ഏത് ലെവൽ വരെയാണ് അവയ്ക്ക് തരണം ചെയ്യാൻ കഴിയുക എന്ന് മനസ്സിലാക്കണം അതുപോലെതന്നെ ചില സെല്ലുകളെ നമ്മൾ അത്തരത്തിലുള്ള PH ലേക്ക് കൊണ്ടുവന്നാൽ അവ അതിജീവിക്കില്ല അവയ്ക്ക് അത്ര വലിയ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ തരണം ചെയ്യാൻ കഴിയണമെന്നില്ല അതിനാൽ ശരിയായ PH ഒരു സിസ്റ്റത്തിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൂടാതെ സെല്ലിന് എത്രത്തോളം തരണം ചെയ്യാൻ കഴിയും എന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ സെല്ലുകളെ വളർത്തുമ്പോൾ സെല്ലുകളുണ്ടാക്കുന്ന അവശിഷ്ടങ്ങൾ ഒന്നും മാറ്റുന്നില്ല അതിനാൽ തന്നെ അവയുടെ PH പരാജയപ്പെടാൻ സാധ്യതയുണ്ട് അതുകൂടാതെ കൾച്ചർ ചെയ്ത ഡിഷ് അസിഡിക് ആവാനും സാധ്യത ഉണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി പറ്റി വളരെയധികം കരുതൽ എടുക്കേണ്ടിയിരിക്കുന്നു PHനെപ്പറ്റി നമ്മൾ സംസാരിച്ചു ഇതുകൂടാതെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ അധെറിങ് സെല്ലുകളെ ഒരു ഡിഷിൽ വളർത്തുകയാണ് എന്ന് വിചാരിക്കുക അവയിൽ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവ വളരുന്ന മീഡിയം ഇങ്ങനെ വിഭജനം നടന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് സെല്ലുകൾക്ക് എനർജി അഥവാ ഊർജം വേണം ഊർജതിൻറെ ഒരേയൊരു സ്രോതസ്സ് മീഡിയമാണ് കാരണം ഒരു സെല്ലും സ്വന്തമായി ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല പകരം എനർജിക്കായി മീഡിയയെ തന്നെയാണ് ആണ് ആശ്രയിക്കുന്നത് അപ്പോൾ രണ്ടു കാര്യങ്ങളുണ്ട് നമ്മൾ ഇവിടെ ഏതുതരം മീഡിയമാണ് വേണ്ടതെന്ന് അറിയണം അടിസ്ഥാനപരമായി നമ്മൾ ഉപയോഗിക്കുന്ന സാൾട്ട് സൊലൂഷൻ ഏതാണ്ട് ഒന്നുതന്നെയാണ് എന്നാൽ ശരീരത്തിത്തിന്റെ പല ഭാഗങ്ങളിലും അതിൻറെ ടൈപ്പുകൾ അനുസരിച്ച് പല മോളിക്യൂളുകളും നമ്മൾ ചേർക്കുന്നു അപ്പോൾ ഓരോ സെൽ ടൈപ്പിനും ഓരോ മീഡിയമാണ് വേണ്ടത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാകാം അപ്പോൾ അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ തന്നെ ഉദാഹരണമായെടുക്കാം അതായത് ശരീരത്തിൽ സെല്ലുകളുടെ പല തരം കോളനികൾ ഉണ്ട് ചിലത് ചുവപ്പ്ആകാം പച്ച ആകാം നീലയും ആകാം ഇതിലൂടെയെല്ലാം രക്തക്കുഴലുകൾ ഒഴുകി ആവശ്യമായ പോഷകങ്ങൾ എത്തിക്കുന്നു എന്നിരുന്നാലും ഓരോ സെല്ലിനും അതിൻറെ നിർദിഷ്ടമായ ആവശ്യങ്ങളുണ്ട് അതായത് ഈ നീല കോളനി സെല്ലുകൾക്ക് പ്രത്യേകമായി വേണ്ട പല പദാർഥങ്ങളും ചുറ്റുമുളള സഹോദരങ്ങൾ ഉണ്ടാക്കുകയും രക്തക്കുഴലുകൾ വഴിയോ നേരിട്ടോ എത്തിക്കുകയും ചെയ്യുന്നു ബ്ലഡ് ഇത്തരം ഹോർമോണുകളും പ്രത്യേകമായ വളർച്ചാ പദാർഥങ്ങളും നിർദ്ദിഷ്ട സെല്ലുകളുടെ റിസപ്റ്ററിലേക്ക് എത്തിക്കുന്നു അപ്പോൾ വീണ്ടും അടിസ്ഥാനതത്വത്തിലേക്ക് വരികയാണെങ്കിൽ സെല്ലുകൾ വളരെ ചലനാത്മകമായ പരിസ്ഥിതിയിലാണ് ഇരിക്കുന്നത് എന്നാൽ നമ്മൾ സെല്ലുകൾ കൾച്ചർ ചെയ്യുമ്പോൾ അവയെ ഒരു സ്റ്റാറ്റിക് മോഡലായാണ് കണക്കാക്കുന്നത് ഇന്ന് ലോകത്തിൻറെ പല ഭാഗങ്ങളിലും ഇത്തരം സ്റ്റാറ്റിക് മോഡലുകളെയാണ് പിന്തുടരുന്നത് ഓരോ സെൽ ടൈപ്പുകളുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് അതായത് ഞാനിപ്പോൾ ഒരു നിർദിഷ്ട സെൽ ടൈപ്പുകളുടെ കൾച്ചർ ആണ് നടത്തുന്നത് എന്ന് വിചാരിക്കുക അതായത് ഞാൻ നീല സെല്ലുകളെ അല്ലെങ്കിൽ ചുവപ്പ് സെല്ലുകളെ അതുമല്ലെങ്കിൽ പച്ച സെല്ലുകളെ ഒറ്റയ്ക്ക് വളർത്തുകയാണെങ്കിൽ ഇതിൽ ഓരോ സെൽ ടൈപ്പുകൾക്കും ആവശ്യമായ മോളിക്യൂളുകൾ പ്രധാനം ചെയ്യേണ്ടിവരും വരും അവ ഹോർമോണുകളോ വളർച്ചാ പദാർത്ഥങ്ങളുമാകാം എന്നാൽ ഇവയുടെ സങ്കീർണത വർദ്ധിക്കുക നമ്മൾ രണ്ടുതരം സെൽ ടൈപ്പുകളെ വളർത്തുമ്പോളാണ് അത്തരം അവസ്ഥയിൽ ചുവപ്പിന് ഒരു തരത്തിലുള്ള വളർച്ചാ പദാർഥങ്ങളാണ് വേണ്ടത് പച്ചയ്ക്കു മറ്റൊരു തരത്തിലുള്ളതും അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഈ പച്ച സെല്ലുകൾക്കായി നമ്മൾ നൽകിയ വളർച്ചാ പദാർഥങ്ങൾ ചുവപ്പ് സെല്ലുകളുമായി സംവദിക്കാതിരിക്കലാണ് അതിനുള്ള ഒരേയൊരു വഴി എന്തെന്നാൽ ചുവപ്പു സെല്ലുകളിൽ അവയ്ക്കു വേണ്ട റിസെപ്റ്ററുകൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ ചുവപ്പിൽ റിസപ്റ്റർ ഉണ്ടാകാം ഇതാണ് യഥാർത്ഥ ജീവിത സാഹചര്യത്തിലെ സങ്കീർണതഅവ രക്തക്കുഴലുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുകയും നിർദിഷ്ട ഇടങ്ങളിൽ ബന്ധിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്നാൽ ശരീരഘടനയുടെ പുറത്ത് അത്തരമൊരു സംവിധാനം ഇല്ല ഇത് പുറത്തെ പരിസ്ഥിതിയിൽ സെല്ലുകളെ വളർത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാക്കും അതുപോലെ നമ്മൾ സംസാരിച്ചപ്പോൾ എനർജി അഥവാ ഊർജ്ജം പ്രദാനം ചെയ്യുന്ന മോളിക്യൂളുകളെ പറ്റി പറഞ്ഞിരുന്നു നമ്മൾ ഏതൊരു സെല്ലിനെ നോക്കിയാലും ഗ്ലൂക്കോസ് ആണ് അതിലെ പ്രധാന ഊർജ്ജ സ്രോതസ്സ് അപ്പോൾ നാം ഉണ്ടാക്കുന്ന എല്ലാ മീഡിയത്തിലും ഗ്ലൂക്കോസാണ് പ്രധാന ഊർജ്ജ സ്രോതസ്സ് അതുകൂടാതെ കാർബണും ആവാം എന്നാൽ അവയിൽ ചില പ്രശ്നങ്ങളുണ്ട് അതിനെ പറ്റി പിന്നീട് പറയാം നമ്മൾ ഗ്ലുറ്റാമിനും മറ്റ് സ്രോതസ്സുകളും ഊർജത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ഇതോടുകൂടി ഞാൻ ആദ്യത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓക്സിജനെ പറ്റി കാർബൺഡയോക്സൈഡിനെ പറ്റി എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്കളെ പറ്റി സെൽ സൈക്കിൾ ഡിഫറെൻഷിയേഷൻ സെൽ ലൈനുകൾ ഡി അഡാപ്റ്റേഷൻ എന്നിവയെല്ലാം പറഞ്ഞു അതിനിടയിൽ ചെറിയതോതിൽ പ്രൈമറി കൾച്ചറുകളെ പറ്റിയും പറഞ്ഞിരുന്നു അതുകൂടാതെ സെല്ലുകളുടെ അസിഡിക് ബേസിക് PH ക്കളെ പറ്റിയും നമ്മൾ പറഞ്ഞു ഇവയ്ക്കുപുറമേ മീഡിയം വളർച്ച പദാർഥങ്ങളെ പറ്റിയും സെല്ലുകൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്ന മോളിക്യൂളുകളായ ഗ്ലൂക്കോസ് കാർബൺ എന്നിവയെപ്പറ്റിയും സംസാരിച്ചു ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ സെൽ കൾച്ചർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫിസിയോളജിയെ പറ്റി അടിസ്ഥാനപരമായ ജ്ഞാനം ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അതായത് ശരീരത്തിന് എന്തെല്ലാം ആണ് ആവശ്യം ശരീരഘടനയോട് ചേർന്ന് പോകുന്ന പരിസ്ഥിതി ആണോ അല്ലെങ്കിൽ അതേ പരിസ്ഥിതി തന്നെയാണോ നൽകേണ്ടത് ഇതിനെ പറ്റി നമ്മുടെ ആദ്യത്തെ കുറച്ച് ക്ലാസുകളിൽ പറഞ്ഞിരുന്നു ഉദാഹരണത്തിന് ഇതാണ് ഇൻ വൈവോ ഫിസിയോളജിയിൽ അഥവാ സെല്ലുകളിൽ നടക്കുന്ന ഫിസിയോളജിയിൽ എനിക്കുള്ള ജ്ഞാനം പിന്നെ ഇവിടെ ഇൻ വിട്രോ ഫിസിയോളജിയാനുള്ളത് ഇൻവിട്രോ ഫിസിയോളജിയെപ്പറ്റിയാണ് നാം മുൻപ് പറഞ്ഞിരുന്നത് അതായത് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ടെൻഷൻ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് സെല്ലുകളുടെ PH കൾച്ചർ മീഡിയം അതുകൂടാതെ ഊർജ്ജ സ്രോതസ്സുകൾ വളർച്ച പദാർഥങ്ങൾ ഹോർമോണുകൾ തുടങ്ങിയവ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ സെല്ലുകളെല്ലാം വളർത്തുമ്പോൾ അവയുടെ പരിസ്ഥിതി ശരീരഘടനയോട് വളരെ സാമ്യമുള്ളതായിരിക്കണം അതുകൂടാതെ അങ്ങനെ വളർത്തുന്ന സെല്ലുകളുടെ സവിശേഷതകളും നമ്മൾ വിശകലനം ചെയ്യണം ഉദാഹരണത്തിന് സെൽ ഒരു നിശ്ചിത അളവിലുള്ള എൻസയ്മ് ഉൽപാദിപ്പിക്കുന്നു അതിന് ഒരു ആന്റി ഓക്സിഡേറ്റീവ് ശേഷിയുണ്ട് മാത്രമല്ല അത് ഒരു P യൂണിറ്റ് ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ അതിനെ ഇൻ വിവോ അവസ്ഥയുമായി താരതമ്യം ചെയ്യുന്നു ഈ സെൽ എങ്ങനെ പ്രവർത്തിക്കുന്നു ഈ പ്രത്യേക പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിരവധി പ്രോപ്പർട്ടികളുടെ ക്വാണ്ടിഫിക്കേഷൻ പാരാമീറ്റർ എന്താണ് ഒപ്പം ഇൻ വിവോ അവസ്ഥയിലാണെങ്കിൽ എന്താണുണ്ടാവുക ഉദാഹരണത്തിന് Y ആക്സിസിൽ അവയുടെ പ്രവർത്തനത്തെപ്പറ്റി പറഞ്ഞാൽ അതിനാൽ ഒരു പ്രത്യേക കാര്യത്തിന്റെ പ്രവർത്തനം ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ എത്രത്തോളം ഇൻ വിട്രോ അവസ്ഥയിലാണ് ഞാൻ അതിനെ കവിയുന്നുണ്ടോ ഞാൻ അതിനു താഴെയാണോ അതിനനുസരിച് ഇൻ വിട്രോ സജ്ജീകരണത്തിൽ വളരുന്ന ഈ സെല്ലിന്റെ ജീവശാസ്ത്രം മനസിലാക്കണം അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള ആ പ്രവർത്തനം പോലും നിർവഹിക്കുന്നില്ല അതിനാൽ ഈ ചുവന്ന വൃത്തത്തിൽ കാണിച്ചതാണ് സാങ്കൽപ്പിക പി യൂണിറ്റിന്റെ ഇൻ വിട്രോയിലെ ഫിസിയോളജി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്തെന്നാൽ കൾച്ചർ സെല്ലിന്റെ ജീവശാസ്ത്രത്തെ നിങ്ങൾ എത്രമാത്രം മനസിലാക്കിയിട്ടുണ്ടെന്നും ഒരു പ്രത്യേക കൃത്രിമ അവസ്ഥ സൃഷ്ടിക്കുന്നതിനായി നിങ്ങൾ സെൽ സാമ്പിൾ ടിഷ്യുവിന്റെ വിവോ ഫിസിയോളജിയെ എത്രമാത്രം ഗൌരവമായി കണ്ടു എന്നുള്ളതുമാണ് യഥാർത്ഥ വെല്ലുവിളി അതിനാൽ അടിസ്ഥാന ഫിസിയോളജിയെക്കുറിച്ച് മനസിലാക്കുന്നതും ഇൻ വിട്രോ ഫിസിയോളജിയുമായി ബന്ധപ്പെടുത്തുന്നതും വളരെ പ്രധാനമാണ് കൂടാതെ ഈ ദൌത്യം നിർവഹിക്കുമ്പോൾ അവയിലെ വീഴ്ചകളും തെറ്റുകളും മനസിലാക്കണം ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ആഴ്ചയിലെ ആദ്യത്തെ ക്ലാസ് ഇതുപയോഗിച്ചു ലേയൌട്ടുകളിലേക്കും ഡിസൈനുകളിലേക്കും പോകാം ഇനി നമ്മൾ അടുത്തതായി ഈ സെൽ കൾച്ചറിന്റെ ലേയൌട്ടുകളിലേക്കും രൂപകൽപ്പനയിലേക്കും നീങ്ങും അതിനാൽ ഞാൻ ഇവിടെ നിർത്തുകയാണ് ദയവായി ഈ പോയിന്റുകളിലൂടെ പോയി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ സ്വന്തം തത്ത്വചിന്ത വികസിപ്പിക്കുകയും ചെയ്യുക